സ്വാഗതം ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണെന്ന് മനസിലാക്കുന്നതിനാണ് ഈ മൊഡ്യൂൾ ശരി എന്നിട്ട്മറ്റൊരു കാര്യം സ്ലീവ് റേറ്റ് ആണ് ഈ പ്രത്യേക മൊഡ്യൂളിൽ നമ്മൾ 2 കാര്യങ്ങൾ കാണും വീണ്ടും പ്രവർത്തന ആംപ്ലിഫയറിന്റെ സവിശേഷതകൾ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഒരു കൂട്ടം പരീക്ഷണങ്ങളെ കുറിച്ചും നമ്മൾ ഇതിൽ പഠിക്കും അതിനാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇൻപുട്ട് ഓഫ്സെറ്റ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പഠിക്കുന്ന സിദ്ധാന്ത ഭാഗമാണിത് നിലവിലെ സ്ലീവ് റേറ്റ് തുടർന്ന് നമ്മൾ സിഎംആർആർ കണ്ടു വിപരീത ആംപ്ലിഫയറും നമ്മൾ കണ്ടു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഓസിലേറ്ററുകളും മറ്റും ഇവിടെ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് സർക്യൂട്ട് നിർമ്മിച്ചുകൊണ്ട് പരീക്ഷിക്കുന്നു ശരിയാണ് അത് നിങ്ങളെ മനസിലാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് എങ്ങനെ പ്രവർത്തന ആംപ്ലിഫയർ ഉപയോഗിക്കാം വ്യത്യസ്ത പാരാമീറ്ററുകൾ എങ്ങനെ കണ്ടെത്താം അതിനാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇൻപുട്ട് ടെർമിനലിലോ ഇൻപുട്ട് ടെർമിനൽ ഒപ് ആമ്പുകളിലോ നിങ്ങൾ വോൾട്ടേജ് നൽകിയിട്ടില്ലെന്ന് കരുതുക ഗ്രൌണ്ട് ചെയ്യുന്നു അതിനർത്ഥം വിപരീത ടെർമിനലാണ് ഗ്രൌണ്ട് ചെയ്തു വിപരീതമല്ലാത്ത ടെർമിനൽ ഗ്രൌണ്ട് ചെയ്തു അതിനാൽ ഔട്ട്പുട്ടിൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഔട്ട്പുട്ട് 0 ആയിരിക്കണം ശരിയാണ് എന്നാൽ നിങ്ങൾ ഈ പ്രത്യേക പരീക്ഷണം പരീക്ഷിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രവർത്തന ആംപ്ലിഫയർ അളക്കുക അതായത് നിങ്ങൾ വിപരീത ടെർമിനൽ ഗ്രൌണ്ട് ചെയ്തു വിപരീതമല്ലാത്ത ടെർമിനൽ ഗ്രൌണ്ട് ചെയ്തു നിങ്ങൾ അളക്കുന്നു ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾ കണ്ടെത്തുന്നത് ഔട്ട്ട്ട്പുട്ട് വോൾട്ടേജ് 0 അല്ല എന്നതാണ് അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 അല്ല നമുക്ക് അത് എങ്ങനെ 0 ആക്കാം ശരിയല്ലേ ഒപ്പം ഇൻപുട്ടിൽ ആവശ്യമായ വോൾട്ടേജും ഔട്ട്ട്ട്പുട്ട് വോൾട്ടേജ് 0 നിങ്ങളുടെ ഓഫ്സെറ്റ് വോൾട്ടേജാണ് ഇതാണ് ഓഫ്സെറ്റ് വോൾട്ടേജ് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് നിർവചനം എന്താണെന്നും നമുക്ക് എങ്ങനെ അളക്കാമെന്നും സ്ക്രീനിൽ നോക്കാം ശരി അതിനാൽ ഞങ്ങൾ എന്താണ് കണ്ടത് രണ്ട് ഇൻപുട്ട് ടെർമിനലുകളും വലതുവശത്ത് സ്ഥാപിക്കുമ്പോൾ അതിനർത്ഥം ഞാൻ പ്രവർത്തന ആംപ്ലിഫയർ എടുക്കുക ഞാൻ ഇൻപുട്ട് ടെർമിനലുകൾ രണ്ടും സ്ഥാപിക്കുന്നു ഇപ്പോൾ ഇത് ഒരു ഉദാഹരണം ശരി അടുത്ത സ്ലൈഡിൽ ഞങ്ങൾ ഉദാഹരണം കാണും അടുത്ത സ്ലൈഡിൽ സർക്യൂട്ട് ഞാൻ തന്നെ കാണിക്കുന്നു അതിനാൽ ഇൻപുട്ട് ടെർമിനലുകൾ അടിസ്ഥാനമാകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കണം ശരിയാണ് എന്നാൽ പ്രായോഗിക പ്രവർത്തന ആംപ്ലിഫയറിന്റെ കാര്യത്തിൽ 0 അല്ലാത്ത ഔട്ട്പുട്ട് വോൾട്ടേജ് നിലവിലുണ്ട് അല്ലേ ഒപ്പം ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കുന്നതിന് മില്ലിവോൾട്ടുകളിലെ ഒരു ചെറിയ വോൾട്ടേജ് ഇൻപുട്ട് ടെർമിനലുകളിലൊന്നിലേക്ക് പ്രയോഗിക്കേണ്ടതുണ്ട് ശരി അതിനാൽ ഈ ചെറിയ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കുന്നതിന് നിർമ്മിക്കേണ്ടതുണ്ട് അല്ലേ ഈ ചെറിയ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 നിർമ്മിക്കാൻ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു അതിനെ സൂചിപ്പിക്കുന്നു Vios എഴുതിയത് ശരിയാണോ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണെന്ന് മനസിലാക്കാൻ എളുപ്പമാണ് പക്ഷേ അത് എങ്ങനെ കണക്കാക്കാം അതിനാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് പരീക്ഷണം നമുക്ക് നോക്കാം അതിനാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് അളക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് uA741 ആണ് ഞങ്ങൾ റെസിസ്റ്ററുകൾ ഉപയോഗിച്ചു ശരിയാണ് റെസിസ്റ്ററുകളുടെ അതേ മൂല്യം അല്ലെങ്കിൽ 100 ഇവിടെ ഇത് 100k ആണ് ശരിയാണ് കൂടാതെ Vcc മൈനസ് VccVo വോൾട്ടേജ് Vo യുടെ മൂല്യം അളക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ ആ ഇൻപുട്ട് അനുമാനിക്കുന്നത് എന്താണ് ഇൻപുട്ട് ഞങ്ങൾ ഗ്രൌണ്ട് ചെയ്തു അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ട് ആയിരിക്കണം ഞാനത് ഇവിടെ എഴുതട്ടെ അതിനാൽ ഇൻപുട്ടുകൾ ഗ്രൌണ്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ട് ആയിരിക്കും ശരിയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണോ അല്ലയോ എന്ന് മനസിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഔട്ട്പുട്ടിൽ ഞങ്ങൾ എത്ര വോൾട്ടേജ് നൽകണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സർക്യൂട്ട് കണക്റ്റുചെയ്യുക ഇതുപോലെയാണ് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ട് കണക്റ്റു ചെയ്യുന്നത് നോക്കാം വളരെ എളുപ്പമാണ് ശരിയാണ് ഞാൻ ഈ സ്ലൈഡുകൾ നിങ്ങളുമായി പങ്കിടുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത് എവിടെനിന്നും ചെയ്യാൻ കഴിയും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ട് ബന്ധിപ്പിക്കുക ഇപ്പോൾ DC t ഔട്ട്പുട്ട് വോൾട്ടേജ് പിൻ 6 ൽ അളക്കുക ഇത് നമുക്ക് അറിയാവുന്ന പിൻ 6 ആണ് ശരി നിങ്ങൾക്ക് മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾക്കറിയാമോ ഇപ്പോൾ മൾട്ടിമീറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്നും റെക്കോർഡുചെയ്യാമെന്നും ഫലം പട്ടികയിൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് കണക്കാക്കുകയും മൂല്യം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പട്ടികയാണിത് പട്ടിക വളരെ എളുപ്പമാണ് അതിനാൽ Vout എന്തായാലും അവിടെ ഞങ്ങൾ അത് എഴുതാം ശരിയാണ് ഞങ്ങൾ ഈ സൂത്രവാക്യം ഉപയോഗിച്ച് Vin അളക്കാൻ കഴിയും നമുക്ക് ഏത് Voutട്ടിനെയും ആയിരം കൊണ്ട് ഹരിക്കാം എന്തുകൊണ്ട് കാരണം അനുപാതത്തിന്റെ ശരി അതിനാൽ ഇത് യഥാർത്ഥത്തിൽ പരീക്ഷണത്തിൽ നമുക്ക് നോക്കാം ഞങ്ങൾ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ബന്ധിപ്പിക്കും ഈ മൂല്യത്തിന്റെ ആംപ്ലിഫയർ 3 റെസിസ്റ്ററുകൾ ഞങ്ങൾ ഇത് ബന്ധിപ്പിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കാം തുടക്കത്തിൽ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ട് ഞങ്ങൾ കാണില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രായോഗിക ഓപ് ആമ്പിൽ ഞങ്ങൾ ചില മില്ലിവോൾട്ടുകൾ കാണും ശരിയല്ലേ അതിനാൽ ഈ പരീക്ഷണം നമുക്ക് നോക്കാം ബ്രെഡ്ബോർഡിൽ വീണ്ടും കാണാം ഇവിടെ ശരിയാണ് സീതാറാം ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ എന്ന് മനസിലാക്കാൻ അദ്ദേഹം ഞങ്ങളെ സഹായിക്കുന്നു സർക്യൂട്ടുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലേ അതിനാൽ ഇവിടെ കാണുന്നതുപോലെ ഒരു ബ്രെഡ്ബോർഡ് ഉണ്ട് ബ്രെഡ്ബോർഡ് 3 റെസിസ്റ്ററുകൾ ശരി എന്നിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ സർക്യൂട്ട് ഉണ്ട് ഞങ്ങൾ ഡിസി വൈദ്യുതി വിതരണത്തിലൂടെ ബയാസ് വോൾട്ടേജും പ്ലസ് 15 മൈനസ് 15 ഉം ശരിയല്ലേ ഇപ്പോൾ ഞങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കുന്നു അതിനാൽ ഇൻപുട്ട് വോൾട്ടേജുകൾ രണ്ടും ഗ്രൌണ്ട് ചെയ്യുന്നു ടെർമിനലുകൾ ശരിയാണ് ഇപ്പോൾ ഞങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മനസ്സിലാക്കുന്നു എവിടെ നിന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് പിൻ ഉപയോഗിച്ചോ അല്ലാതെയോ പിൻ നമ്പർ 6 ൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കാൻ ഞങ്ങൾക്ക് കഴിയും നമ്പർ 6 ഉം ഗ്രൌണ്ട് ചെയ്തു അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം വീണ്ടും മൾട്ടിമീറ്റർ ഉള്ളത് ഡിസി ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് അതിനാൽ അദ്ദേഹം പോസിറ്റീവിനെ 6 ഉം മറ്റൊരു ടെർമിനലിനെ ഗ്രൌണ്ട് ചെയ്തു ബന്ധിപ്പിക്കുന്നു കുറച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട് നിങ്ങൾക്ക് 7 6 മില്ലിവോൾട്ടുകൾ കാണാൻ കഴിയും ഇപ്പോൾ എന്താണ് യഥാർത്ഥമായത് കാര്യം യഥാർത്ഥ കാര്യം ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ശരിയായിരിക്കണം പക്ഷേ യഥാർത്ഥ ഒപ് ആമ്പിൽ പ്രായോഗിക ഓപ് ആമ്പ് ഞങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 നേടാൻ കഴിയില്ല അങ്ങനെ നമുക്ക് 7 6 മില്ലിവോൾട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ ശരിയാണ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഞങ്ങൾ നേടിയതെന്തും സ്ക്രീനിൽ കാണുന്ന പട്ടികയിൽ ഞാൻ അതേ മൂല്യം തന്നെ ഇടുന്നു അപ്പോൾ എനിക്ക് 7 6 എഴുതാം 100 കൊണ്ട് ഹരിക്കുക അത് എന്റെ Vin ആയിരിക്കും അതായത് ഇൻപുട്ട് I ലെ ഈ വോൾട്ടേജ് എന്റെ ഔട്ട്പുട്ട് 0 എളുപ്പമാക്കാൻ അപേക്ഷിക്കേണ്ടതുണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷണങ്ങൾ ഇവിടെ വീട്ടിലും ചെയ്യാൻ കഴിയും പരീക്ഷണ ഇൻപുട്ട് ബയസ് നിലവിലെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ശരിയല്ലേ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ മറ്റ് സവിശേഷതകൾ നമുക്ക് നോക്കാം സ്ലീവ്നിരക്ക് പ്രവർത്തന ആംപ്ലിഫയറിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് നോക്കാം സ്ലീവ്നിരക്ക് ശരി അപ്പോൾ സ്ലീവ് നിരക്ക് എന്താണ് പ്രതികരണമായി ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ മാറ്റത്തിന്റെ പരമാവധി നിരക്ക് ഘട്ടം ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ മാറ്റത്തിന്റെ പരമാവധി നിരക്ക് അതിനാൽ നിങ്ങൾ ഇവിടെ കാണുന്ന സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് ഞാൻ പ്രയോഗിച്ചാൽ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് മാറ്റം എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജിലെ മാറ്റം എന്താണ് അല്ലേ പരമാവധി മാറ്റം ഇപ്പോൾ ഇൻപുട്ട് സിഗ്നലിനെ ഔട്ട്പുട്ടിന് എത്ര വേഗത്തിൽ പിന്തുടരാനാകുമെന്നതിന്റെ അളവ് ഇതെല്ലാം സ്ലീവ് റേറ്റ് കൂടിയാണ് ശരിയല്ലേ ഔട്ട്പുട്ട് എത്ര വേഗത്തിൽ ഇൻപുട്ട് സിഗ്നലിനെ പിന്തുടരുമെന്ന് മനസിലാക്കാൻ ഇത് ഞങ്ങളെ സഹായിക്കുന്നു അതിനാൽ ഞാൻ ഒരു ഇൻപുട്ട് സിഗ്നൽ നൽകുമ്പോൾ എനിക്ക് എത്ര വേഗത്തിൽ ഔട്ട്പുട്ട് ലഭിക്കും എനിക്ക് എത്ര വേഗത്തിൽ ഔട്ട്പുട്ട് ലഭിക്കും അല്ലേ സ്ലീവ് നിരക്കിന് ഒരു അളവുണ്ട് അതിനർത്ഥം ഈ പ്രത്യേക ഗ്രാഫിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തുചെയ്യും നിങ്ങൾ കാണുന്നുണ്ടോ ഒരു എക്സ് ആക്സിസ് ഉണ്ട് നിങ്ങളുടെ സമയം മൈക്രോസെക്കൻഡിലാണ് y ആക്സിസ് വോൾട്ടേജാണ് അല്ലേ ഇത് ഞാൻ എടുത്തത് റോബർട്ട് ബോയ്ൽസ്റ്റാഡ് നിന്നാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സർക്യൂട്ട് തിയറി എന്നിവയിൽ നിന്ന് ഈ പ്രത്യേക ഗ്രാഫ് ഇത് കൃത്യമായി എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് ഈ പുസ്തകം റഫർ ചെയ്യാൻ കഴിയും നിങ്ങൾ സ്ലീവ് റേറ്റ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിശദമായി അറിയുക എന്നാൽ ഈ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഗ്രാഫ് എന്താണ് അർത്ഥമാക്കുന്നത് ഗ്രാഫ് വളരെ എളുപ്പമാണ് നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് ഇവിടെ ശരിയാണ് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചുവന്ന നിറത്തിൽ കാണിക്കുന്നു അല്ലേ അതിനാൽ എല്ലാം ചുവപ്പ് കാരണം എന്റെ പേന ചുവന്നതാണ് അതിനാൽ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും പ്രത്യേക ഗ്രാഫ് വലത് നീലയും ചുവപ്പും സിഗ്നൽ ഉണ്ട് അതിനാൽ നിങ്ങളുടെ ചുവപ്പായ നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങളുടെ നീലയെ എത്ര വേഗത്തിൽ പിന്തുടരുന്നു അതാണ് നിങ്ങളുടെ സ്ലീവ് നിരക്ക് മനസിലാക്കാൻ എളുപ്പമാണ് അല്ലേ അതിനാൽ സ്ലീവ് നിരക്ക് ∆Vout∆t ഇപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾക്ക് സ്ലീവ് റേറ്റ് ശരിയായി അളക്കണമെങ്കിൽ അതിനർത്ഥം പരീക്ഷണാത്മകമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്ലീവ് നിരക്ക് അളക്കാൻ അതിനാൽ നമുക്ക് സർക്യൂട്ട് കാണാം ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സ്ക്രീൻ കാണാൻ കഴിയും അല്ലേ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഒരു uA741 ഉണ്ട് ശരിയാണ് നിങ്ങൾ വോൾട്ടേജ് പ്രയോഗിച്ചു നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വൺ വോൾട്ട് പീക്ക് ടു പീക്ക് അതിനാൽ എന്താണ് ഘട്ടങ്ങൾ ആദ്യ പടി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ട് ബന്ധിപ്പിക്കുന്നു അതിനാൽ ഈ സ്ലൈഡുകൾ നിങ്ങൾക്കൊപ്പം ചെയ്യാൻ ശ്രമിക്കുന്നു എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് പ്രവർത്തിക്കാൻ ആക്സസ് ഉണ്ട് അല്ലേ നിങ്ങൾക്ക് ലബോറട്ടറിയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് സൌകര്യപ്രദമായിടത്ത് വീട്ടിൽ ജോലിചെയ്യാം വീണ്ടും ഏത് സിസ്റ്റവും എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് എല്ലായ്പ്പോഴും മനസിലാക്കുക അല്ലേ ആദ്യം സുരക്ഷ അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല വീട്ടിൽ ഇത് പരീക്ഷിക്കരുത് അതേ കാര്യം ശരിയല്ലേ ലളിതമായ കാര്യങ്ങൾ പോലും നിങ്ങൾ അറിയുന്നതുവരെ ശ്രമിക്കരുത് അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക ശരിയാണ് കാരണം ഒടുവിൽ ഞങ്ങൾ DC വോൾട്ടേജ് പ്രയോഗിക്കുന്നു ഞങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ നാം എപ്പോഴും ശ്രദ്ധിക്കണം എന്നാൽ കാര്യം നിങ്ങൾ സ്ലീവ് റേറ്റ് അളക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഘട്ടങ്ങൾ പാലിക്കുക നിങ്ങൾ സ്ലീവ് നിരക്ക് അളക്കാൻ കഴിയും സർക്യൂട്ട് എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഫംഗ്ഷൻ ജനറേറ്റർ ഇപ്പോൾ ഫംഗ്ഷൻ ജനറേറ്റർ ഫംഗ്ഷൻ ജനറേറ്റർ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ടു ശരി പീക്ക് സ്ക്വയർ വേവിലേക്ക് നമുക്ക് ഒരു വോൾട്ട് പീക്ക് പ്രയോഗിക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ ഇതിൽ കാണും പരീക്ഷണം ഒരു ആവൃത്തിയിൽ പീക്ക് സ്ക്വയർ തരംഗത്തിലേക്ക് ഞങ്ങൾ ഒരു വോൾട്ട് പീക്ക് എങ്ങനെ പ്രയോഗിക്കുന്നു 25 കിലോഹെർട്സ് ഫ്രീക്വൻസിൽ നമുക്ക് 25 കിലോഹെർട്സ് ആവൃത്തി നിലനിർത്താം ഇപ്പോൾ നമുക്ക് മറ്റൊരു സിസ്റ്റം ആവശ്യമാണ് ഓസിലോസ്കോപ്പുകൾ അതിനാൽ പരീക്ഷണങ്ങൾ ശരിക്കും ചെലവേറിയതോ ധാരാളം സ്ഥലം ഉപയോഗിക്കുന്നതോ ചെയ്യരുത് നിങ്ങളുടെ വീട്ടിൽ അതിനാൽ നിങ്ങളുടെ ലബോറട്ടറിയിലേക്ക് പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തിന്റെ ലാബിലേക്ക് പ്രവേശിക്കാം നിങ്ങൾക്ക് ഒരു അധ്യാപകനിൽ നിന്ന് അനുമതി വാങ്ങാം ഒപ്പം സഹായിക്കാൻ അവിടെയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ലളിതമായി ചെയ്യാൻ കഴിയുന്ന ലബോറട്ടറിയിലേക്ക് നിങ്ങൾക്ക് ഒരു ആക്സസ് നൽകും ശരിയാണ് അതിനാൽ ഒരു ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് പ്രവർത്തന ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നിരീക്ഷിക്കുക ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു ഓസിലോസ്കോപ്പ് കാണുക ഞങ്ങൾ പ്രവർത്തന ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നിരീക്ഷിക്കും ഞങ്ങൾ ചെയ്യും ∆t എന്നതുമായി ബന്ധപ്പെട്ട് ∆V വോൾട്ടേജ് മാറ്റം അളക്കുക ശരി എന്തുകൊണ്ട് കാരണം ഞങ്ങൾ കണ്ടതാണ് അവസാന സ്ലൈഡ് സ്ലീവ് റേറ്റിന്റെ ഫോർമുല ∆Vout ∆t അല്ലാതെ മറ്റൊന്നുമല്ല അല്ലേ അതിനാൽ ഞങ്ങൾ എന്താണ് അളക്കുന്നത് ഞങ്ങൾ ഇത് നാലാമത്തെ പോയിന്റ് അളക്കുന്നു ഇത് ഇതാണ് ഔട്ട്പുട്ട് തരംഗത്തിന്റെ ∆t വോൾട്ടേജ് ∆V അളക്കുക ഫലങ്ങൾ രേഖപ്പെടുത്തുക സ്ലീവ് നിരക്ക്ണക്കാക്കുക ശരിയല്ലേ ആദ്യ ഘട്ടം സർക്യൂട്ട് സെക്കൻഡ് കണക്റ്റുചെയ്യുന്നത് ആവർത്തിക്കാം ഫംഗ്ഷനു ജനറേറ്റർ ഉപയോഗിച്ച് 25 കിലോഹെർട്സ് വരെ ഒരു വോൾട്ട് പീക്ക് പ്രയോഗിക്കുക മൂന്നാമത് ഒരു ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് തരംഗരൂപം നിരീക്ഷിക്കുക നമുക്ക് എന്താണ് അളക്കേണ്ടത് ഞങ്ങൾ ∆V യിലെ മാറ്റം അളക്കണം ഔട്ട്പുട്ട് തരംഗത്തിന്റെ സമയത്ത് വോൾട്ടേജിലെ മാറ്റം അതിൽ നിന്ന് ∆V∆t നൽകിയ സ്ലീവ് നിരക്ക് SR അളക്കാൻ കഴിയും സർക്യൂട്ട് ഉപയോഗിച്ച് അനലോഗ് ഫംഗ്ഷൻ ജനറേറ്റർ 1 കിലോഹെർട്സ് ആയി സജ്ജമാക്കുക ലെവൽ 20 വോൾട്ട് പീക്ക് ടു പീക്ക് ആവൃത്തി വർദ്ധിപ്പിക്കുകയും ഏകദേശം 10 കിലോഹെർട്സ് ആവൃത്തി എവിടെയെങ്കിലും കാണുക സ്ലീവ് നിരക്ക് ഡിസ്ഡോർസെൻ വ്യക്തമാകും അതിനാൽ ഇവിടെ എഴുതിയ ഈ പ്രത്യേക കാര്യങ്ങൾ ഇത് പട്ടികയിൽ എഴുതിയിട്ടില്ല അല്ല എന്നാൽ ഇത് പരമാവധി ആവൃത്തി എന്താണെന്ന് മനസിലാക്കാൻ മാത്രമാണ് പ്രവർത്തന ആംപ്ലിഫയറിന് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും അത് അറിയാൻ ഞങ്ങൾ ആവൃത്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ അത് എവിടെയെങ്കിലും കാണും സ്ലീവ് നിരക്ക് ശരിയായ വക്രീകരണം മാറും സ്ലീവ് നിരക്കിൽ കുറച്ച് വികലമുണ്ടാകും ഈ വളച്ചൊടിക്കലിൽ ഒപ് ആമ്പിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന പരമാവധി ആവൃത്തിയെ ബാൻഡ്വിഡ്ത്ത് എന്ന് വിളിക്കുന്നു കൂടാതെ നമുക്ക് ഈ മൂല്യം പട്ടികയിൽ അളക്കാനും കഴിയും ഇവിടെ ഞങ്ങൾ സ്ലീവ് നിരക്ക് അളക്കുന്നില്ല അതിനാലാണ് നിങ്ങൾ ഒരു പ്രത്യേകം കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ പരമാവധി ആവൃത്തി അളക്കുന്നില്ല അതിനാൽ ആവൃത്തി അളക്കാൻ ഞങ്ങൾ പട്ടികയിലെ ഒരു നിരയിലോ നോക്കുന്നില്ല സ്ലീവ് റേറ്റ് അളക്കുക സ്ലീവ് റേറ്റ് അളക്കുന്നതിന് ഡെൽറ്റ v ഡെൽറ്റ t എന്നിവ അളക്കേണ്ടത് മാത്രമാണ് ഞങ്ങളുടെ ആശയം നമുക്ക് എന്താണ് വേണ്ടത് ഞങ്ങൾക്ക് ഓസിലോസ്കോപ്പ് ആവശ്യമാണ് ഞങ്ങൾക്ക് ഒരു പ്രവർത്തന ആംപ്ലിഫയർ ആവശ്യമാണ് അതിനാൽ ഒരേ സർക്യൂട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ബ്രെഡ്ബോർഡിൽ ഞാൻ അത് കാണിക്കും അത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ഞങ്ങൾ കാണും അതിനാൽ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ബ്രെഡ്ബോർഡിൽ നോക്കാം നിങ്ങൾ ബ്രെഡ്ബോർഡ് കാണുന്നു ഇവിടെ സർക്യൂട്ട് ഞങ്ങൾ സ്ക്രീനിൽ കണ്ടതിന് സമാനമാണ് ഒരു പ്രവർത്തന ആംപ്ലിഫയർ ഉണ്ട് ഞങ്ങൾ ഈ പ്രവർത്തന ആംപ്ലിഫയർ ബന്ധിപ്പിച്ചു ഫംഗ്ഷനിലേക്ക് ജനറേറ്റർ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഫംഗ്ഷൻ ജനറേറ്ററാണ് അതിനാൽ ഞാൻ വീണ്ടും ചോദിക്കും സീതാറാം ഇവിടെ വന്ന് ബന്ധിപ്പിക്കാൻ അതിനാൽ ഞങ്ങൾ ആവൃത്തി മാറ്റുന്നതിലൂടെ നമുക്ക് ഈ സ്ലീവ് റേറ്റ് എങ്ങനെ അളക്കാമെന്ന് മനസിലാക്കുക അതിനാൽ ഞങ്ങൾ ഇവിടെ ചെയ്തത് ഞങ്ങൾ ആവൃത്തി ജനറേറ്ററുമായി ബന്ധിപ്പിച്ചു പ്രവർത്തന ആംപ്ലിഫയർ അതിനാൽ അന്വേഷണം നടത്തുന്ന സിഗ്നലുകൾ ഇവിടെയുണ്ട് ഈ അന്വേഷണം ഫ്രീക്വൻസി ജനറേറ്ററുമായി ബന്ധിപ്പിച്ചു ഒരു ഫ്രീക്വൻസി ജനറേറ്ററായി നിങ്ങൾ അടുത്തറിയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ 25 കിലോഹെർട്സ് പ്രയോഗിച്ചതായി കാണാം നിങ്ങൾക്ക് 25 കിലോഹെർട്സ് സ്ക്രീനിൽ കാണാൻ കഴിയും ശരിയാണോ ഇപ്പോൾ ഇത് ഞങ്ങൾ പ്രയോഗിച്ച ഒരു ചതുര തരംഗമാണ് നിങ്ങൾക്ക് ഇവിടെ ചതുര തരംഗം കാണാൻ കഴിയും എവിടെയെങ്കിലും 25 കിലോഹെർട്സ് ഉണ്ട് ഇപ്പോൾ ഇത് 25 പ്രയോഗിക്കുമ്പോൾ ഇത് കിലോഹെർട്സ് ഉയർന്ന അളവ് 500 മില്ലിവോൾട്ടാണ് അതിനാൽ 500 മില്ലിവോൾട്ടുകൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്താണ് മാറ്റം എന്താണ് സമയത്തിൽ മാറ്റം വരുത്തണോ ഓസിലോസ്കോപ്പിന്റെ സഹായം സ്വീകരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും അതിനാൽ ഓസിലോസ്കോപ്പ് ഇവിടെത്തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാൻ കഴിയും ഒപ്പം ഔട്ട്പുട്ട് വോൾട്ടേജിലെ മാറ്റം സമയവുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ അതെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ അതിനാൽ സ്ക്രീനിൽ നോക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ സിഗ്നലുകൾ കാണാൻ കഴിയും സമാനമായ സിഗ്നൽ ഞങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് പ്രയോഗിക്കുന്നുവെന്ന് ഇവിടെ കാണാൻ കഴിയും ഒപ്പം ഔട്ട്ട്ട്പുട്ടിൽ കുറച്ച് കാലതാമസവുമുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജിലെ ഈ കാലതാമസം ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും ശരിയല്ലേ വോൾട്ടേജിലെ മാറ്റം എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാമെങ്കിൽ അത് ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു അല്ലേ ഡെൽറ്റ t എന്ന സമയത്തിലെ മാറ്റം എന്താണെന്ന് ഞങ്ങൾ കാണുന്നു അതിനാൽ ഡെൽറ്റ v ബൈ ഡെൽറ്റ t ഞങ്ങൾക്ക് സ്ലീവ് റേറ്റ് നൽകും അതിനാൽ ഞങ്ങൾ നിങ്ങൾ വീണ്ടും കാണുന്നത് വളരെ എളുപ്പമാണ്പ്രവർത്തന ആംപ്ലിഫയറിലേക്ക് പ്ലസ് 15 മൈനസ് 15 നിരന്തരം പ്രയോഗിക്കുന്നു ഞങ്ങൾ ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് അളക്കുന്നു അതായത് ഫംഗ്ഷൻ ജനറേറ്ററിന് 25 കിലോഹെർട്സ് ഞങ്ങൾ അളക്കുന്നു അതിനാൽ മനസിലാക്കാൻ ഓപ്പറേഷൻ ആംപ്ലിഫയറിനൊപ്പം 3 കാര്യങ്ങളും ഒരുമിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഔട്ട്പുട്ട് വോൾട്ടേജിലെ മാറ്റമാണ് സ്ലീവ് റേറ്റ് ഹരിക്കൽ ഡെൽറ്റ t അതിനാൽ ∆Vt ഇപ്പോൾ സ്ലൈഡിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു ആവൃത്തി വർദ്ധിപ്പിക്കുകയും 10 കിലോ ഹെർട്സ് വേഗതയിൽ എവിടെയെങ്കിലും തരംഗരൂപം കാണുകയും ചെയ്തു സ്ലീവ്നിരക്ക് വളച്ചൊടിക്കൽ വ്യക്തമാകും അതിനാൽ നമുക്ക് ആ പരീക്ഷണം നടത്താം നമുക്ക് ആവൃത്തി കുറയ്ക്കുക സാവധാനം വർദ്ധിപ്പിക്കാം മാറ്റം നിങ്ങൾ ഓസിലോസ്കോപ്പിൽ കാണും അതെ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ ഫ്രീക്വൻസി ജനറേറ്റർ ഉപയോഗിച്ച് അദ്ദേഹം ആവൃത്തി മാറ്റാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഓസിലോസ്കോപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാനാകും സ്ലീവ്നിരക്ക്കുറയാൻ തുടങ്ങും മാറ്റാൻ ആരംഭിക്കുക ശരി അതിനാൽ അദ്ദേഹം ഏകദേശം 220 230 ഹെർട്സ് കൂടാതെ നിങ്ങൾ ഓസിലോസ്കോപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അല്ലേ ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നു അവൻ ആവൃത്തി മാറ്റുകയാണ് ശരിയാണ് അവൻ 365 375 മാറ്റുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അദ്ദേഹം ഇത് 425 കിലോഹെർട്സ് 465 കിലോഹെർട്സ് വർദ്ധിപ്പിക്കുകയാണെന്ന് കാണുക വളരെയധികം വളച്ചൊടിക്കൽ ഉണ്ട് വളരെയധികം വളച്ചൊടിക്കുന്നു അല്ലേ എന്നാൽ അദ്ദേഹം കുറയുന്നത് തുടരുകയാണെങ്കിൽ ആവൃത്തി നിങ്ങൾക്ക് വീണ്ടും കുറയ്ക്കാൻ കഴിയുമോ അതെ അവൻ ആവൃത്തി കുറയ്ക്കുന്നുവെന്ന് കണ്ടാൽ വക്രീകരണം കുറയുന്നു ഇത് മനസിലാക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ സ്ലീവ് റേറ്റ് അളക്കാൻ എളുപ്പമാണ് അതിനാൽ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക അതിനാൽ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതു പ്രത്യേക ആവൃത്തി op amp പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അത് പരമാവധി ആവൃത്തിയാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ പ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനാൽ ഒരു 2 വഴിയോ എളുപ്പമോ ഉണ്ട് ഏത് ഫ്രീക്വൻസി ഓപ്പറേഷൻ ആംപ്ലിഫയർ പ്രവർത്തിപ്പിക്കാമെന്നും ആവൃത്തി നന്നായി മനസ്സിലാക്കാമെന്നും മനസ്സിലാക്കുക ഈ സ്ലീവ് നിരക്ക് വികലമാകും ശരിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ സ്ലീവ് നിരക്ക് അതെ എന്ന് അളക്കാൻ കഴിയുമോ ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഏത് മഞ്ഞയാണ് നിങ്ങൾക്ക് നീല നിറമോ പച്ചകലർന്ന നിറമോ ഇളം നീലയോ കാണാൻ കഴിയും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള കാലതാമസം ഡെൽറ്റ t യിലെ ഈ മാറ്റം ഡെൽറ്റ v യിലെ മാറ്റം എന്നിവയാണ് ഔട്ട്പുട്ട് സിഗ്നൽ നിങ്ങൾ ഈ 2 മൂല്യങ്ങൾ അളക്കുമ്പോൾ നിങ്ങൾ അളക്കേണ്ട നിങ്ങളുടെ 2 മൂല്യങ്ങളാണ് ഈ സ്ക്രീനിലേക്ക് മടങ്ങുക നിങ്ങൾ ഈ മൂല്യം ഇടുകയാണെങ്കിൽ ഈ മൂല്യത്തിന് പകരമായി നിങ്ങൾ കാണും ഡെൽറ്റ വി ഡെൽറ്റ ടി എന്നിവയിൽ നിങ്ങൾക്ക് സ്ലീവ് നിരക്ക് അളക്കാൻ കഴിയും അതിനാൽ ഈ പ്രത്യേക മൊഡ്യൂളിനായി കൃത്യമായി സ്ലീവ്നിരക്ക് എന്താണെന്ന് ഞങ്ങൾ മനസിലാക്കും സ്ലീവ് നിരക്ക് എങ്ങനെ ശരിയാക്കാമെന്ന് ഞങ്ങൾ ഒരു പരീക്ഷണം കണ്ടു അതിനാൽ ഇത് അവസാനിക്കുന്നു ഈ പ്രത്യേക മൊഡ്യൂൾ ഈ അവസാന സ്ലൈഡിലും ഞാൻ കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്റെ പേരിൽ എന്തെങ്കിലും നല്ലത് ചെയ്ത ചില പ്രശസ്ത വ്യക്തിയിൽ നിന്ന് ഒരു ഉദ്ധരണി കൊണ്ടുവരാൻ ശ്രമിക്കും ജീവിതം ശരിയാണ് ഒന്നുകിൽ ശാസ്ത്രത്തിന്റെ കാര്യത്തിലോ എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിലോ അക്കാദമിക് വിദഗ്ധരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്ത ഒരു വ്യക്തി പിന്തുടരാൻ ശ്രമിക്കുക അതിനാൽ തോമസ് എഡിസൺ എന്ന ശാസ്ത്രജ്ഞനെ നിങ്ങൾ അറിഞ്ഞിരിക്കാം അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ ഉപേക്ഷിക്കുന്നതിൽ ബലഹീനതയുണ്ട് വിജയിക്കാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം എല്ലായ്പ്പോഴും ഒരു തവണ മാത്രം ശ്രമിക്കുക ഇന്നതല്ല കൂടുതൽ ഒരിക്കല് കുടി അതിനർത്ഥം ഞങ്ങൾ ജനറേറ്റുചെയ്യുന്നത് കാര്യം ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു അത് എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കുന്നില്ല ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതും ഈ പരീക്ഷണത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് കരുതുക സിംഗിൾ ഒന്നുമില്ലെന്ന് നിങ്ങൾ കാണും ഓ ഇത് പ്രവർത്തിക്കുന്നില്ല ഒരിക്കൽ കൂടി ശ്രമിക്കുക ശ്രമിക്കുക ഒരിക്കൽ കൂടി നിങ്ങൾ വിജയിക്കും അതാണ് ഏറ്റവും കൃത്യമായ മാർഗ്ഗം എന്ന് അദ്ദേഹം പറഞ്ഞതും ഒരു തവണ കൂടി ശ്രമിക്കുന്നതാണ് വിജയം അതിനാൽ ഉപേക്ഷിക്കരുത് സീരീസ് മനസിലാക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക ഞങ്ങൾ എന്ത് പരീക്ഷണങ്ങളാണ് നടത്തിയതെന്ന് മനസിലാക്കുക അതിന്റെ സവിശേഷതകൾ മനസിലാക്കാൻ ശ്രമിക്കുക പ്രവർത്തന ആംപ്ലിഫയർ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ മനസിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്സ്വയം ശരി അതിനാൽ എല്ലായ്പ്പോഴും പഠിക്കാൻ ശ്രമിക്കുക തുടർന്ന് സ്വയം പരീക്ഷണങ്ങൾ നടത്തുക ഒരിക്കൽ നിങ്ങൾ പ്രകടനം നടത്തി സ്വയം പരീക്ഷണം നിങ്ങൾക്ക് കൂടുതൽ ആശയം അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക അല്ലേ അതിനാൽ ഇത് ഈ പ്രത്യേക മൊഡ്യൂളിന്റെ അവസാനമാണ് ഒപ്പം അടുത്ത മൊഡ്യൂളിൽ ഞാൻ നിങ്ങളെ കാണും കൂടുതൽ പരീക്ഷണങ്ങൾ